കറൻറ് മിറർ ബയസിംഗ് ഉപയോഗിച്ച് കോമൺ സോഴ്സ് ആംപ്ലിഫയർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് ഇപ്പോൾ കാണാം നേരത്തെ ട്രാൻസിസ്റ്ററിന്റെ ഡ്രെയിൻ കറന്റിനെ തന്നിട്ടുള്ള I0 മായി തുല്യമാക്കാൻ ട്രാൻസിസ്റ്ററുകൾക്ക് ചുറ്റും ഒരു ഡ്രെയിൻ ഫീഡ്ബാക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ആ ട്രാൻസിസ്റ്ററിനെ ഒരു കോമൺ സോഴ്സ് ആംപ്ലിഫയറായി ഉപയോഗിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ കറൻറ് മിറർ ബയസിംഗ് ഉപയോഗിച്ച് നമുക്ക് ഒരു ട്രാൻസിസ്റ്ററിനു ചുറ്റും മാത്രം ഫീഡ്ബാക്ക് കൊടുത്താൽ മതിയാകും അതിന്റെ എഫെക്ട് ബാക്കി എല്ലാ ട്രാൻസിസ്റ്ററിലും ദൃശ്യമാകുകയും അവയെല്ലാം കോമൺ സോഴ്സ് ആംപ്ലിഫയറായി പ്രവർത്തിക്കുന്നു തീർച്ചയായും ഒരേ IC യും ഒരേ ഡൈയുമുള്ള ഒരു പോലത്തെ ട്രാൻസിസ്റ്ററുകളായിരിക്കണം എല്ലാം അതിനാൽ അവയെല്ലാം ഒരേ താപനിലയിലും മറ്റും ആയിരിക്കണം എന്നതാണ് വ്യവസ്ഥ അതിനാൽ കറൻറ് മിറർ ബയസ് ഉപയോഗിച്ച് കോമൺ സോഴ്സ് ആംപ്ലിഫയർ നമ്മളുണ്ടാക്കും ഇപ്പോൾ കറൻറ് മിറർ ബയസ് എന്താണ് ഈ മുകളിലെ ലൈൻ സപ്ലൈ വോൾട്ടേജ് VDD ആണെന്ന് വിചാരിക്കുക ഇത് ആവശ്യമില്ല എന്നു തോന്നിയതിനാൽ ഞാൻ ഇത് മുന്നേ കാണിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ ഞാൻ അത് കാണിക്കാം ഇവിടെ ഈ ട്രാൻസിസ്റ്റർ M0 നു ചുറ്റും ഡ്രെയിൻ ഫീഡ്ബാക്ക് ഉണ്ട് ഇത് ഒരു VGS ഉപയോഗിച്ച് ബയസ് ചെയ്യിക്കുന്നു ഇതാണ് VT 2I0nCox ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ VGS തന്നെ VT യിലെയോ കറൻറ് ഫാക്ടറിലെയോ ഏതെങ്കിലും വ്യതിയാനങ്ങൾ തിരുത്തുന്നു ഇപ്പോൾ M0 ഉപയോഗിച്ച് കോമൺ സോഴ്സ് ആംപ്ലിഫയർ ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് നമ്മൾ ഇതിനകം കണ്ടുകഴിഞ്ഞു ഡ്രെയിനിനും സോഴ്സിനും ഇടയിൽ നമുക്ക് ഒരു റെസിസ്റ്റർ ഉണ്ടാകും ഒപ്പം ഇൻപുട്ടിലേക്കും ഔട്ട്പുട്ടിലേക്കും മറ്റും നമുക്ക് ac കപ്പിൾ ചെയ്യാം അതിനാൽ ഇതാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കാത്തത് നമുക്ക് മറ്റൊരു ട്രാൻസിസ്റ്റർ M1 ഉണ്ട് M1 M2 എന്നിവ ചേർച്ചയുള്ളതാണ് M1 ന് സമാനമായ ഓപ്പറേറ്റിംഗ് പോയിൻറ് കറന്റ് I0 ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കൂടാതെ M1 ഉപയോഗിച്ച് ഒരു കോമൺ സോഴ്സ് ആംപ്ലിഫയർ ഉണ്ടാക്കാനും ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഇത് എങ്ങനെ ചെയ്യും ഇപ്പോൾ എനിക്കിത് സർക്യൂട്ടിൽ വിശദീകരിക്കാൻ കഴിയും കോൺസ്റ്റന്റ് വോൾട്ടേജ് ബയസിങ്ങിനായി ഇത് എങ്ങനെ ചെയ്തുവെന്ന് ഓർമ്മിക്കുന്നത് ഉപയോഗപ്രദമാണ് അപ്പോൾ അന്ന് നമ്മൾ എന്താണ് ചെയ്തത് നമ്മുക്ക് സപ്ലൈ വോൾട്ടേജ് VDD ഉണ്ടായിരുന്നു അതിനർത്ഥം VDD എന്ന വോൾട്ടേജ് സ്രോതസ്സ് ലൈനിനും ഗ്രൌണ്ടിനും ഇടയിൽ ഉണ്ടായിരുന്നു നമ്മുക്ക് ട്രാൻസിസ്റ്റർ M1 ഉണ്ടായിരുന്നു നമ്മൾ എന്താണ് ചെയ്തതെന്നാൽ നമുക്ക് വേണ്ട VGS R2R1 R2 VDD ആണ് ഇത് പഴയ കോൺസ്റ്റന്റ് വോൾട്ടേജ് ബയസിങ് രീതിയാണ് R1 ഉം R2 ഉം അതിനനുസരിച്ച് തിരഞ്ഞെടുക്കുന്നു നമുക്ക് സിഗ്നൽ സോഴ്സ് Vs ഉണ്ടായിരുന്നു Rs ഉം ഇപ്പോൾ ഈ ടെർമിനലിനും ഗ്രൌണ്ടിനും ഇടയിൽ ഈ വോൾട്ടേജ് ഡിവൈഡർ തെവനിൻ സോഴ്സ്മായി സീരീസിൽ ഉള്ള R1 ||R2 എന്ന ഒരു റെസിസ്റ്ററിന് തുല്യമാണ് അത് R2R1 R2 VDD ആണ് അപ്പോൾ ഈ ബയസിന്റെ മൂല്യവും ഈ സിഗ്നലിന്റെ മൂല്യവും നമുക്ക് എങ്ങനെ കിട്ടും ഈ ബയസിന്റെ മൂല്യം നമ്മൾ ഒരു റെസിസ്റ്ററിലൂടെ ബന്ധിപ്പിച്ചു ഇപ്പോൾ നമ്മൾ ഇതിനുവേണ്ടി മാത്രമായി ഒരു റെസിസ്റ്റർ ഉപയോഗിച്ചിട്ടില്ല കാരണം ഈ റെസിസ്റ്റർ ഇതിനകം തന്നെ ഇവിടെയുണ്ട് അതിനാൽ ബയസ് വോൾട്ടേജ് ഒരു റെസിസ്റ്ററിലൂടെ ഗേറ്റിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ സിഗ്നൽ വോൾട്ടേജ് ഒരു കപ്പാസിറ്റർ വഴി ഗേറ്റിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ നമുക്കിവിടെ അതേ കാര്യം ചെയ്യാൻ കഴിയും ബയസ് വോൾട്ടേജ് ഇവിടെ നിന്ന് ലഭ്യമാണ് ആവശ്യമായ VGS ഇതാണ് ഇത് ചില നിശ്ചിത വോൾട്ടേജല്ല പക്ഷേ ഇത് ട്രാൻസിസ്റ്റർ സ്വഭാവത്തെയും നമുക്ക് ആവശ്യമുള്ള കറൻറിനെയും ആശ്രയിച്ചിരിക്കുന്നു നമുക്ക് നമ്മുടെ സിഗ്നൽ സോഴ്സുണ്ട് സ്ഥലക്കുറവ് കാരണം ഞാൻ അത് ഇവിടെ കാണിക്കാം എനിക്ക് Vs ഉം Rs ഉം ഉണ്ട് എനിക്ക് ചെയ്യേണ്ടത് ഈ സിഗ്നലിലേക്ക് ഈ ബയസ് ചേർക്കുക എന്നതാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം ഞാൻ ഒരു റെസിസ്റ്ററിലൂടെ ബയസിനെ ബന്ധിപ്പിക്കുന്നു ഞാൻ ഇതിനെ RG എന്ന് വിളിക്കുന്നു ഞാൻ ഒരു കപ്പാസിറ്റർ C1 വഴി സിഗ്നൽ ബന്ധിപ്പിക്കുന്നു സിഗ്നൽ ഫ്രീക്വൻസിക്ക് പൂജ്യമല്ലാത്ത ചില മിനിമം മൂല്യമുണ്ടെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞപോലെ അതിനാൽ ഇത് പൂജ്യമാണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ കഴിയില്ല കാരണം കപ്പാസിറ്ററിൽ dc യെ തടയും പക്ഷേ ധാരാളം ആപ്ലിക്കേഷനുകൾക്ക് ഇത് നല്ലതാണ് ഈ സിഗ്നലിന് ഒരു നിശ്ചിത മിനിമം ഫ്രീക്വെൻസി ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് വലിയ ഒരു C1 ഫൈനൈറ്റ് വാല്യൂ ആയി എടുക്കാം അതിനാൽ വ്യത്യസ്ത ബയസിങ് ടെക്നിക്കുകൾ തമ്മിലുള്ള സമാനതകൾ കാണിക്കാനാണ് ഞാൻ ഇപ്പോൾ ഇത് ചെയ്തത് നിങ്ങൾക്ക് ഇവിടെ ഒരു വോൾട്ടേജ് ലഭിക്കുന്നതിന് ചില വഴികളുണ്ട് നിങ്ങൾ ആ വോൾട്ടേജ് സിഗ്നലിലേക്ക് ചേർക്കുക ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് dc ബയാസ് വോൾട്ടേജ് ലഭിക്കുന്നതിന് വേറെചില മാർഗമുണ്ട് നിങ്ങൾ അത് സിഗ്നലിലേക്ക് ചേർക്കുക ഇപ്പോൾ ഇത് VGS ഇവിടെ ഉണ്ടാക്കുന്നു M1 സാച്ചുറേഷനിൽ ആയിരിക്കുന്നതിന് VDS എന്നത് VGS VT യെക്കാൾ വലുതാണെന്ന് നമുക്ക് ഉറപ്പുവരുത്തണം അതിനാൽ കോമൺ സോഴ്സ് ആംപ്ലിഫയർ ഉപയോഗിച്ച് നമ്മൾ അത് എങ്ങനെ ചെയ്തു M1 ന്റെ ഓപ്പറേറ്റിംഗ് പോയിൻറ് ഡ്രെയിൻ കറന്റ് എന്തായാലും നമ്മൾ ഒരു ഡ്രെയിൻ ബയസ് റെസിസ്റ്റർ RD കണക്റ്റുചെയ്തു ഇതിലൂടെയുള്ള കറൻറ് ID0 ആയിരുന്നു അതിനാൽ M1 നു കുറുകെയുള്ള വോൾട്ടേജ് VDD ID0RDആണ് ഇത് VGS VT യെക്കാൾ കൂടുതലാണെന്ന് നമ്മൾ ഉറപ്പാക്കണം ഇപ്പോൾ നമുക്ക് അതേ സാങ്കേതികത ഇവിടെ ഉപയോഗിക്കാം ഒരു ഡ്രെയിൻ റെസിസ്റ്റർ RD വഴി ഇത് ബയസ് ചെയ്യാം അപ്പോൾ ഈ VDD ഇതിനും ഗ്രൌണ്ടിനുമിടയിൽ VDD എന്ന വോൾട്ടേജ് സോഴ്സ് ഉണ്ടെന്ന് അർഥമാക്കുന്നു അപ്പോൾ ഇത് സാച്ചുറേഷനിൽ ആണെങ്കിൽ ഇതിലൂടെ ഒഴുകുന്ന ബയസ് കറന്റ് I0 നു തുല്യമായിരിക്കും ഇത് ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജിലുള്ള ഡ്രെയിൻ കറന്റിന്റെ ചെറുതായുള്ള ഡിപെൻഡൻസ് ആയ λ യെ ഒഴിവാക്കിക്കൊണ്ടാണ് അതിനാൽ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് VDD I0 RD ആയിരിക്കും അതിനാൽ ഇത് VGS VT യേക്കാൾ കൂടുതലാണെങ്കിൽ ട്രാൻസിസ്റ്റർ M1 സാച്ചുറേഷനിൽ ആണെന്ന നമ്മുടെ ധാരണ ശരിയാകും ഇത് നുമുക്ക് കണക്കുകൂട്ടി ഉറപ്പാക്കാനും കഴിയും അതിനാൽ ഇത് ബയസ് പൂർത്തിയാക്കുന്നു ട്രാൻസിസ്റ്റർ ഇപ്പോൾ കോൺസ്റ്റന്റ് കറന്റ് ബയസിങിൽ നിന്ന് ഉണ്ടായ വോൾട്ടേജുമായി ബയസ് ആയിട്ടുണ്ട് അതിനാൽ ഇതും ഇതും തമ്മിലുള്ള വ്യത്യാസം VGS ഇവിടെ കോൺസ്റ്റന്റ് ആണ് അതിനാൽ VT മാറുകയാണെങ്കിൽ VT വർദ്ധിക്കുകയാണെങ്കിൽ M1 ന്റെ ട്രാൻസ് കണ്ടക്ടൻസ് കുറയും ഇവിടെ ഇവ രണ്ടും മാച്ച് ആകുന്നു അതിനാൽ ത്രെഷോൾഡ് വോൾട്ടേജ് വർദ്ധിക്കുകയാണെങ്കിൽ ഈ വോൾട്ടേജ് തന്നെ വർദ്ധിച്ചുകൊണ്ട് ആ കുറവ് നികത്തുന്നു അതിനാൽ ഈ ട്രാൻസിസ്റ്ററിന്റെ gm ൽ മാറ്റമൊന്നുമില്ല അതിനാലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ബയസിങ് ആദ്യം തന്നെ തിരഞ്ഞെടുക്കുന്നത് ഇതാണ് നല്ലത് ഇത് ഗെയിൻ കൂടുതൽ സ്ഥിരമായി നിലനിർത്തുന്നു ഇപ്പോൾ നമുക്ക് ലോഡ് കണക്റ്റുചെയ്യേണ്ടതുണ്ട് അത് വളരെ എളുപ്പമാണ് നമ്മൾ ലോഡ് ട്രാൻസിസ്റ്ററിന്റെ ഡ്രെയിനിലേക്ക് ac കപ്പിൾ ചെയ്തു കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ ലോഡ് ഡ്രെയിനും സോഴ്സും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നാൽ തീർച്ചയായും ഇത് ഇതിന്റെ ഒരു മാതൃക മാത്രമാണ് ഇത് ഒരു ഫിസിക്കൽ റെസിസ്റ്ററായിരിക്കില്ല അതിനാൽ നമ്മൾ ഒരു ടെർമിനലിനെ ഗ്രൌണ്ട് ചെയ്തതായി കാണിക്കുന്നു ഈ കപ്പാസിറ്റർ C2 വഴി നമ്മൾ ലോഡ് കപ്പിൾ ചെയ്യിക്കുന്നു നമ്മൾ ലോഡ് എസി കപ്പിൾ ചെയ്തു മുമ്പത്തെപ്പോലെ C2 ന്റെ മൂല്യം നമുക്ക് കണക്കാക്കാം അതിനാൽ ഇതാണ് കോമൺ സോഴ്സ് ആംപ്ലിഫയർ ഉപയോഗിച്ച് അന്ന് നമ്മൾ ചെയ്തത് നമ്മൾ ഇപ്പോൾ അതാണ് ചെയ്യുക തീർച്ചയായും യഥാർത്ഥ കോമൺ സോഴ്സ് ആംപ്ലിഫയറിൽ ഗേറ്റ് ബയസ് ഒരു വോൾട്ടേജ് ഡിവൈഡർ ഉപയോഗിച്ചാണ് കണ്ടെത്തിയത് അതിന്റെ ചില റെപ്രസെന്റേഷനുകൾ ഞാൻ കാണിച്ചു ഇപ്പോൾ ഇവ രണ്ടും തമ്മിലുള്ള സമാനതകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ട്രാൻസിസ്റ്റർ പാരാമീറ്ററുകളുമായി ബന്ധപ്പെട്ട് ഈ വോൾട്ടേജ് കോൺസ്റ്റന്റ് അല്ല എന്നതാണ് ആകെയുള്ള വ്യത്യാസം ത്രഷോൾഡ് വോൾട്ടേജ് വർദ്ധിക്കുകയോ കറൻറ് ഫാക്ടർ കുറയുകയോ ചെയ്താൽ ബയസ് വോൾട്ടേജ് തന്നെത്താൻ ഉയർന്ന് ഒരു പരിധിവരെ അത് നികത്തുന്നു അതിനാൽ കറൻറ് മിറർ ബയസ് ഉപയോഗിക്കുന്ന കോമൺ സോഴ്സ് ആംപ്ലിഫയറാണ് ഈ സർക്യൂട്ട് ഈ RG മുമ്പത്തെ പോലെ ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നു അടിസ്ഥാനപരമായി ഈ RG ഇവിടെ ഇടുന്നത് ഇവിടെയും അവിടെയും dc വോൾട്ടേജ് തുല്യമാണെന്ന് ഉറപ്പാക്കുന്നു എന്നാൽ ഈ C1 വളരെ വലുതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനാൽ സിഗ്നൽ ഫ്രീക്വെൻസിക്കനുസരിച്ച് ഈ പോയിന്റ് ചെറുതാകും കൂടാതെ Vs ഉം ഗെറ്റും തമ്മിൽ വോൾട്ടേജ് വിഭജിക്കപ്പെടാത്ത രീതിയിൽ നിങ്ങൾ RG വളരെ വലുതായി തിരഞ്ഞെടുക്കണം അതിനാൽ ഈ ഭാഗം വ്യക്തമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ നിങ്ങക്ക് എന്ത് ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് നിങ്ങൾക്ക് മറ്റൊരു ട്രാൻസിസ്റ്റർ ഉണ്ട് നിങ്ങൾ ആംപ്ലിഫയറിന്റെ ഒരു കൂട്ടം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു ഉദാഹരണത്തിന് ഒരു M2 ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരേ ഓപ്പറേറ്റിങ് പോയിന്റ് വേണം നിങ്ങൾക്ക് ഇത് RG എന്ന ഒരു റെസിസ്റ്റർ വഴി ബയസ് ചെയ്യാൻ അതേ ബയസ് വോൾട്ടേജ് തന്നെ ഉപയോഗിക്കാം ഇതിനെ RG2 എന്നു വിളിക്കുന്നു RG RG2 എന്നിവ വളരെ വലുതാണെന്നാണ് ഇവിടെയുള്ള അനുമാനം അപ്പോൾ ഈ ആംപ്ലിഫയറും അവയും തമ്മിൽ യാതൊരു ഇടപെടലും ഉണ്ടാകില്ല നമ്മൾ അത് വിശദമായി വിശകലനം ചെയ്യില്ല പക്ഷേ RG വളരെ വലുതാണെങ്കിൽ അവ ഒരേ നോഡിലേക്ക് ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് വ്യത്യസ്ത ആംപ്ലിഫയറുകൾ ഉള്ളതുപോലെയാണ് M2 വിലേക്ക് കണക്റ്റുചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്ന സിഗ്നലുകൾ മറ്റൊരു കപ്ലിംഗ് കപ്പാസിറ്ററിലൂടെ നമ്മൾ കണക്റ്റ് ചെയ്യിക്കുന്നു കൂടാതെ M2 ഉപയോഗിച്ച് മറ്റൊരു കോമൺ സോഴ്സ് ആംപ്ലിഫയർ ഉണ്ടാക്കാനാകും അതിനാൽ ഇത് മറ്റൊരു കോമൺ സോഴ്സ് ആംപ്ലിഫയറാണ് കറൻറ് മിറർ ഉപയോഗിച്ച് കോൺസ്റ്റന്റ് കറൻറ് കൊണ്ടുള്ള ബയസിങ് കൊണ്ട് നിങ്ങൾക്ക് ഒരു കൂട്ടം കോമൺ സോഴ്സ് ആംപ്ലിഫയറുകളെ ബയസ് ചെയ്യിക്കാം അതിനാൽ ഇതിന്റെ ഗുണം ഇതാണ് ഈ സർക്യൂട്ട് ഉണ്ടാക്കുന്നതിന്റെ ലോജിക് വളരെ വ്യക്തമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലാത്തപക്ഷം ഘട്ടം ഘട്ടമായി അതിലൂടെ കടന്ന് അവ ഓരോന്നും നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഉറപ്പാക്കുക